അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു ഇത് മറ്റൊരു ഉദാഹരണമാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത് 200 വോൾട്ടിന്റെ ലോ വോൾട്ടേജ് വശത്തെ സൂചിപ്പിക്കുന്ന സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറിന്റെ തുല്യ സർക്യൂട്ട് ആണ് ഉയർന്ന വോൾട്ടേജ് വശത്തുള്ള ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ ലോഡ് കുറഞ്ഞ വോൾട്ടേജ് കറന്റ് കാര്യക്ഷമത എന്നിവ കണക്കാക്കുമ്പോൾ ഈ പ്രശ്നത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറഞ്ഞ വോൾട്ടേജ് വശം 200 വോൾട്ട് ആണ് എന്നതാണ് അതിനാൽ ഉയർന്ന വോൾട്ടേജ് സൈഡ് 2000 വോൾട്ട് ആയി കണക്കാക്കുക അതിനർത്ഥം N2 N1 10 ആയിരിക്കും അതിനാൽ N2 N1 V2 V 1 അങ്ങനെ പറയുന്നതിനാൽ ഇത് R2000 200 ആയിരിക്കും അത് R10 ആയിരിക്കും അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ടു പോകാം അതിനാൽ ഇതാണ് സർക്യൂട്ട് ഡയഗ്രം ഇത് ലോ വോൾട്ടേജ് വശത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഗണിതശാസ്ത്ര വ്യുൽപ്പന്നങ്ങൾക്കായുള്ള ഇതിന്റെ തുല്യമായ സർക്യൂട്ട് നമ്മൾ നേരത്തെ തന്നെ കണ്ടു അതിനാൽ ഈ ലോ വോൾട്ടേജ് വശം വോൾട്ടേജ് 200 വോൾട്ട് അതിനാൽ ഈ കോർ കുറവ് ഘടക പ്രതിരോധത്തിന് 400 Ω ഉം കാന്തിക ഘടകത്തിന് 231 ഉം നൽകിയിരിക്കുന്നു Ω ഇതാണ് നിലവിലെ I 0 ഇതിലൂടെ ഒഴുകുന്ന നിലവിലെ I c ഉം ഈ ശാഖയിലൂടെ I m ഉം ആണ് ഇത് ഈ ട്രാൻസിസ്റ്ററിനു പുറമെ പരിഹരിക്കുന്നതും സീരീസ് പാരലൽ സർക്യൂട്ട് പോലെ പരിഹരിക്കുന്നതും പോലെയാണ് നമ്മൾ ഇത് ഒരൊറ്റ ഘട്ടത്തിനായി ചെയ്തുവെങ്കിലും ഇത് R e 1 ആണ് 0 1 Ω ഉം 5s ഉം ഇതാണ് നിലവിലെ I2 ഒഴുകുന്നത് പ്രാഥമിക വശത്തും I1 I 0 I2 ഉം ഇതാണ് 7 9 Ω പ്രതിരോധവും 5 5 Ω പ്രതിപ്രവർത്തനവും അതാണ് ഇൻഡക്റ്റീവ് ലോഡ് എന്ന് വിളിക്കുന്നത് ഇത് പ്രൈമറി സൈഡ് ലോ വോൾട്ടേജ് സൈഡ് എന്നും ലോഡിലുടനീളം വോൾട്ടേജ് V2 എന്നും പരാമർശിക്കുന്നു നേരത്തെ നമ്മൾ കണ്ടത് V2 k V2 ആണ് നമ്മൾ ഇതിനകം കണ്ടതായി കാണിച്ചുവെങ്കിലും ഇവയെല്ലാം ഗണിതശാസ്ത്ര വ്യുൽപ്പന്നത്തിനുള്ളതാണ് ഈ പരാമീറ്ററുകളെല്ലാം നൽകിയിരിക്കുന്നു അതിനാൽ ഉയർന്ന വോൾട്ടേജ് വശത്തുള്ള ടെർമിനൽ വോൾട്ടേജ് നമ്മൾ കണ്ടെത്തണം അത് വി 2 ഉം ലോ വോൾട്ടേജ് ലോ കറന്റും I1 ഉം പിന്നെ കാര്യക്ഷമതയുമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അതിനാൽ ഇപ്പോൾ I m ഇത് ഒരു സമാന്തര സർക്യൂട്ട് ആണ് അതിനാൽ Im 20032 31 അത് വരുന്നതെന്തും Ic R200 400 ആയിരിക്കും അതിനാൽ ഇത് ഒരു സമാന്തര സർക്യൂട്ട് ആണ് അതിനാൽ Im 200231 അതിനാൽ 0 866 ആമ്പിയറും I c 200400 ഉം അതിനാൽ 0 5 ആമ്പിയർ I 0 I c j I m എന്ന് നമുക്കറിയാം അതിനാൽ ഇത് 0 5 j 0 866 ആമ്പിയർ ആണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ I0 മാഗ്നിറ്റ്യൂഡ് 1 ഉം ആംഗിൾ 60 degree ആമ്പിയർ ആയിരിക്കും ഇപ്പോൾ R e ന് 0 1 ഉം Xe 0 5 ഉം നൽകിയ മൊത്തം പ്രതിരോധം എടുത്താൽ ഈ വർഷം ആകെ ലോഡ് ചെയ്യുക ഇവിടെ RL 7 9 X L 5 അതിനാൽ പ്രാഥമിക ഭാഗത്ത് നിന്ന് R ആകെ R e RL ആയിരിക്കും ഞാൻ ഇവിടെ RL എഴുതുന്നു അതിനാൽ 0 1 7 98 Ω ഉം X ആകെ Xe X L ഉം ആയിരിക്കും സങ്കലനം കാണുക അതിനാൽ ഇത് 6Ω ആയിരിക്കും അതിനാൽ ഇംപെഡൻസ് Z 8 j 6 ആയിരിക്കും അതിനാൽ I2 വി 1 വോൾട്ടേജ് ആ ലോ വോൾട്ടേജ് വശത്തെ വിളിക്കും ഇതാണ് റഫറൻസ് വോൾട്ടേജ് അതിനാൽ 200 ആംഗിൾ 0 o 8 j 6 അതിനാൽ ഇത 20 ആംഗിൾ 36 9o o ആമ്പിയർ ആയിരിക്കും അതിനാൽ ഇവിടെ സർക്യൂട്ടിൽ I1 ആദ്യ ഭാഗം I2 I 0 ഇവിടെ KCL I1 I 0 I2 പ്രയോഗിക്കുക അതിനാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് I2 എന്നതിന് പകരമായി വരും ഇവിടെ ഞാൻ 0 ആണ് അതിനാൽ ഇത് 20 9 ആംഗിൾ 38 o ആമ്പിയർ ആകും ഇപ്പോൾ V2 V 1 ആയിരിക്കും I2 R e j X j Xe 1 അതിനർത്ഥം ഇവിടെ ഈ സർക്യൂട്ടിൽ എന്ത് കോൾ പ്രയോഗിക്കുന്നു എന്നത് കെ അല്ലെങ്കിൽ KVL പ്രയോഗിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഇതാണ് നിലവിലെ I2 I2 R e j Xe ഇതാണ് വോൾട്ടേജ് അതിനാൽ V2 ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് വോൾട്ടേജ് അതേ കാര്യം ഇതാണ് V 2 V2 പകരം V2 അതിനാൽ ഇത് ആണ് അതിനാൽ V2 V 1 0 ന് തുല്യമാണ് അതിനാൽ ഞങ്ങൾ അവിടെ പ്രയോഗിച്ച അതേ കാര്യം KVL പ്രയോഗിക്കുക അതിനാൽ അതിനർത്ഥം V2 V 1 I2 R e j Xe 1 എടുക്കുകയാണെങ്കിൽ അതിനാൽ അത് e200 ആംഗിൾ 0 20 ആംഗിൾ 36 9 ആകും R e 1 0 1 j 0 ലളിതമാക്കുകയാണെങ്കിൽ അത് വി 2 ആയി മാറും വി 2 ഇവിടെ 190 ആകും 190 192 5 ആംഗിൾ 2 ഒ വി 2 ന്റെ വ്യാപ്തി 1925 വോൾട്ട് ആയിരിക്കും നേരത്തെ നമ്മൾ V2 k V2 N2 byN2 1 എന്നിവ കണ്ടു 1 കാരണം ഞാൻ ഈ 10 പറഞ്ഞു കാരണം ഉയർന്ന വോൾട്ടേജ് സൈഡ് വോൾട്ടേജ് 2000 വോൾട്ട് ആണ് അത് അവിടെ എഴുതിയിട്ടില്ല അതിനാൽ കെ 110 അതിനാൽ K V2 V2 കാരണം V 2 K V2 അതിനാൽ V 2 1925 വോൾട്ട് ആയിരിക്കും V 2 ന്റെ ആ കോണിനെ എന്താണ് വിളിക്കുന്നത് 2 o അതിനാൽ സമാനമായി ഇതിനെ എന്താണ് വിളിക്കുന്നത് അതിനാൽ V 2 1 1925 വോൾട്ടിന്റെ വ്യാപ്തിയും അടുത്തതും കാര്യക്ഷമതയാണ് അതിനാൽ എപ്പോൾ കാര്യക്ഷമത കണ്ടെത്തും ഫലം V2 I2 cos ∅ ∅2 ആണ് അതിനാൽ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ V 2 നോക്കിയാൽ ഈ വോൾട്ടേജ് V2 തമ്മിലുള്ള കോണിന്റെ ∅2 കോണിലുള്ള സർക്യൂട്ട് I2 കോണും V2 കോണും തമ്മിലുള്ള കോണിന്റെ വ്യത്യാസം അതിനാൽ ഇത് നോക്കിയാൽ ഇത് V2 I2 cos ∅2 ആണ് അതിനാൽ വി 2 192 5 ഐ 2 20 മാഗ്നിറ്റ്യൂഡ് കോസ് ആംഗിൾ ഐ 2 36 9 വി 2 എന്നിവ 2 degree ഇവിടെ നമ്മൾ കാണുന്നത് V2 2 o ഇവിടെയാണ് I2 36 9degree അതിനാൽ ഈ സാഹചര്യത്തിൽ അത് വ്യത്യാസം മാത്രമായിരിക്കും അത് cos theta cos theta ആയിരിക്കും രണ്ടും പിന്നിലാണ് റഫറൻസ് എടുക്കുകയാണെങ്കിൽ ഇത് V 1 റഫറൻസാണ് അതിനാൽ ഒരു ആംഗിൾ 30 ഉം ഈ ആംഗിൾ 36 9 ഒയും മറ്റൊരു കോണാണ് ഈ കോണും 2 degree അതിനാൽ ഇതാണ് ആംഗിൾ ഇത് 36 9 2 ആയിരിക്കും ഒരു പവർ ഫാക്ടർ ആംഗിൾ അതിനാൽ അതുകൊണ്ടാണ് 36 92 2 degree അതുകൊണ്ടാണ് 3160 വാട്ട് എന്ന് വിളിക്കുന്നത് അതേ സമയം output കാണുകയാണെങ്കിൽ അതേ സമയം I22 RL ആക്കുകയാണെങ്കിൽ ഇത് ഒരു ലോഡ് പവർ ആണ് ഈ പവർ യഥാർത്ഥത്തിൽ ഉപഭോഗം ചെയ്യുന്നു ലോഡ് ആണെങ്കിൽ 20 2 7 9 ഇത് 3160 വാട്ട് ആണ് അതിനാൽ ഉത്തരം ശരിയാണ് ഇപ്പോൾ ഇൻപുട്ട് പവർ ലോ വോൾട്ടേജ് സൈഡ് V 1 കറന്റ് I1 cos ∅1 ആണ് അതിനാൽ വി 1 RLow 200 വോൾട്ട് ആണ് I1 നമ്മൾ കമ്പ്യൂട്ട് E200 R20 9ഉം ∅1 ഉം 30 ആയിരിക്കും അല്ലെങ്കിൽ ആ കോണിനെ V2 എന്ന് വിളിക്കുന്നത് I1 ന്റെ കോണിലേക്ക് വന്നാൽ ഞാൻ അർത്ഥമാക്കുന്നത് 38 degree ഉം V ഉം V 1 angle 0 അത് റഫറൻസ് ഘട്ടമാണ് അതിനാൽ ഇത് cos 38 o ആണ് അതിനാലാണ് ഇത് cos 38 o ഇത് 3300 വാട്ട് അതിനാൽ കാര്യക്ഷമത ആയിരിക്കും output ഇൻപുട്ട് അതിനാൽ 31603300 അതിനാൽ 95 അതിനാൽ ഇതാണ് ട്രാൻസ്ഫോർമറിന്റെ കാര്യക്ഷമത അത് യഥാർത്ഥത്തിൽ വളരെ ഉയർന്നതാണ് അതിനാൽ മറ്റൊന്ന് 500 KVA ആണ് ഇത് ഒരു പൂർണ്ണ ലോഡ് റേറ്റിംഗ് 500 KVA ട്രാൻസ്ഫോർം 2200 500 വോൾട്ട് ആണ് അതിനാൽ ഉയർന്ന വോൾട്ടേജ് 2200 ലോ വോൾട്ടേജ് വശം 500 വോൾട്ട് 50 ഹെർട്സ് ആവൃത്തി 50 ഹെർട്സ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറിന് 10 ഇംപെഡൻസ് ഉണ്ട് 10 എന്നാൽ ഇത് അളവില്ലാത്തതാണ് അതിനർത്ഥം 0 1 ഇത് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിക്കും ഇതിന് പ്രതിരോധം നൽകിയിട്ടുണ്ട് പ്രതിരോധം 0 നൽകിയിരിക്കുന്നു ഇംപെഡൻസ് മൂല്യം പ്രതിരോധത്തിന്റെ ശതമാനം പ്രതികരണത്തിന്റെ ശതമാനം എന്നിവ കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ ഇംപെഡൻസിന് ശതമാനം 0 10 നൽകിയിട്ടുണ്ട് അതിനാൽ ഇത് എങ്ങനെ ചെയ്യാൻ കഴിയും എങ്ങനെ ചെയ്യാനാകുമെന്ന് ശ്രദ്ധിക്കുക സമാനമായ പ്രശ്നത്തിന് പിന്നീട് അത് ലഭിക്കുമെന്നതിനാൽ ഒരാൾക്ക് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും ആദ്യം പൂർണ്ണ ലോഡ് കറന്റ് കണ്ടെത്തുക കാരണം ഇതിനെയാണ് പൂർണ്ണ ലോഡ് KVA 500 KVA എന്ന് വിളിക്കുന്നത് അതിനാൽ ഇത് 500 1000 ആണ് അതിനാൽ വോൾട്ട് ആമ്പിയർ വിഭജിച്ച് 500 വോൾട്ട് ലോ വോൾട്ടേജ് വശം ലോ വോൾട്ടേജ് ഭാഗത്ത് ഇത് പൂർണ്ണ ലോഡ് കറന്റാണ് കാരണം ലോ വോൾട്ടേജ് ഭാഗത്ത് 500 വോൾട്ട് അതിനാൽ സമാനമായി ഉയർന്ന വോൾട്ടേജ് വശം വേണമെങ്കിൽ വിഭജിക്കാം എന്ത് കോളിന് വിഭജിക്കാം 2200 എന്നാൽ കുറഞ്ഞ വോൾട്ടേജ് വശത്ത് കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ ഇത് 1000 ആമ്പിയർ ആണ് അതിനാൽ അടിസ്ഥാന ഇംപെഡൻസ് Z ആയിരിക്കും ബേസ് ഇംപെഡൻസ് ചെയ്യുമ്പോൾ അതിനെ Z B എന്ന് വിളിക്കുന്നു ഇത് V2 I2 fl ആയിരിക്കും അതിനാൽ ലോ വോൾട്ടേജ് വശം വോൾട്ടേജ് 500 ആണ് ഇത് റേറ്റുചെയ്ത വോൾട്ടേജും പൂർണ്ണ ലോഡ് കറന്റ് 1000 ആമ്പിയറുമാണ് അതിനാൽ ഇത് അടിസ്ഥാന ഇംപെഡൻസാണ് അതിനെ അടിസ്ഥാനമാക്കി പ്രതിരോധത്തിന്റെ ശതമാനം പ്രതികരണത്തിന്റെ ശതമാനം ഇംപെഡൻസ് ശതമാനം എന്നിവ നിർണ്ണയിക്കപ്പെടുന്നു അതിനാൽ ഇത് ZB V2 I2 fl അതിനാൽ 5001000 അതിനാൽ പകുതി Ω ഇപ്പോൾ ഇംപെഡൻസ് Z എന്നിരിക്കട്ടെ അതിനാൽ ഇംപെഡൻസ് ശതമാനം Z Z B ആയിരിക്കും ട്രാൻസ്ഫോർമർ ഇംപെഡൻസ് Z ആണെന്ന് കരുതുകയാണെങ്കിൽ Z Z B ഇംപെഡൻസ് ആയിരിക്കും ഇത് അളവില്ലാത്ത അളവാണ് ഇവിടെ Ω ലെ Z ഈ Z അടിസ്ഥാനത്തിലും Ω ആണ് അതിനാൽ Z Z B ഒരു അളവ് കുറഞ്ഞ അളവാണ് അതിനാൽ ഇത് Z Z ബേസ് എന്നത് പകുതിയായിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ 2 Z ഇതിന് അടിസ്ഥാന ഇംപെഡൻസ് 0 1 നൽകിയിരിക്കുന്നു അതായത് ഇംപെഡൻസ് യഥാർത്ഥത്തിൽ 0 1 അതിനാൽ 2 Z 0 അതിനാൽ Z 0 05 Ω കാരണം ഇവിടെ ഇംപെഡൻസ് Z ആണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ Z Ω ആണ് ഇത് Ω ഉം ആണ് അതിനാൽ ഇത് അളവില്ലാത്ത അളവാണ് അതിനാൽ 2 Z 0 1 അതിനാൽ ഏത് മൂല്യവും ലഭിക്കുമെന്നത് Z യഥാർത്ഥത്തിൽ Ωic മൂല്യത്തിലാണ് അതായത് 0 ഇപ്പോൾ പ്രതിരോധത്തിന് R Z B ഉണ്ടെന്ന് അറിയാം അതിനാൽ R ന് 0 01 given നൽകിയിരിക്കുന്നു അതിനാൽ ഈ R1 യഥാർത്ഥത്തിൽ ഈ R യഥാർത്ഥത്തിൽ ഇതിന് 0 01 Ω ഉം Z ഉം പകുതി നൽകി അതിനാൽ ഇത് യഥാർത്ഥത്തിൽ പ്രതിരോധം 2 അതായത് 0 01 12 അതായത് 0 അതിനാൽ X ഇപ്പോൾ X2 ശ്രദ്ധിക്കുക X2 R2 Z 2 നമുക്കറിയാം അതിനാൽ ഇവിടെ ഉപയോഗിക്കുന്ന X √√Z 2 R2 അതിനാൽ ഇത് 0 05 ആണ് അത് 0 01 ആണ് അതായത് X മൂല്യം 0 049 എന്ന് ലഭിക്കുന്നു പ്രതിപ്രവർത്തന X Zb കാരണം ഇത് is ആണ് ഇതും Ω 0 049 12 ആണ് അതിനാൽ ഇത് യൂണിറ്റിന് 9 8 അല്ലെങ്കിൽ 0 98 ആണ് അതിനാൽ ഒരാൾക്ക് ഈ കാര്യം കണക്കാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ഈ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തുന്നത് ലോ വോൾട്ടേജ് സൈഡ് ഫുൾ ലോഡ് കറന്റിനേക്കാൾ ഉയർന്ന വോൾട്ടേജ് സൈഡ് ഫുൾ ലോഡ് കറന്റ് കണ്ടെത്തുന്നതിൽ കൂടെ ആണ് അടിസ്ഥാന ഇംപെഡൻസ് അത് ചെയ്യാൻ ശ്രമിക്കുക സമാനമായത് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ എന്താണ് കാണുന്നത് ഇതാണ് ഇത് അടുത്തത് നഷ്ടങ്ങളും കാര്യക്ഷമതയും ഒരു ട്രാൻസ്ഫോർമറിൽ വ്യത്യസ്ത തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ട് നമ്മൾ എന്തുചെയ്യും എന്നത് നമ്മുടെ പ്രധാന ആശങ്കയാണ് നമ്മുടെ പ്രധാന ഉത്ക്കണ്ഠ എന്നത് ഇരുമ്പിന്റെ നഷ്ടം അതായത് എഡ്ഡി കറന്റും ഹിസ്റ്റെറിസിസും ഒന്നിച്ച് ചെമ്പ് നഷ്ടം I 2 Rആണ് അത് വൈൻഡിങ് പ്രതിരോധത്തിൽ നഷ്ടം അതിനാൽ പ്രധാന നഷ്ടം എന്ന് പറയുന്നത് ഹിസ്റ്റെറിസിസും എഡ്ഡി കറന്റ് നഷ്ടങ്ങളുമാണ് സ്ഥിരമായ വോൾട്ടേജിലും ആവൃത്തിയിലും പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോർമറിന് കോർ നഷ്ടം സ്ഥിരമാണ് വോൾട്ടേജ് സ്ഥിരമായ ആവൃത്തി ആണെങ്കിൽ കോർ നഷ്ടം കൂടുതൽ സ്ഥിരത കുറവാണ് കാരണം എഡ്ഡി കറന്റിനും ഹിസ്റ്റെറിസിസ് നഷ്ടത്തിനും എഡ്ഡി എക്സ്പ്രഷൻ ഞങ്ങൾ കണ്ടു അതിനാൽ സാധാരണയായി വോൾട്ടേജിന്റെയോ ആവൃത്തിയുടെയോ വ്യത്യാസം നിസാരമാണ് അതിനാൽ ഈ നഷ്ടം അടിസ്ഥാനപരമായി സ്ഥിരമായ കോർ നഷ്ടവും ചെമ്പ് നഷ്ടവുമാണ് I 2 R നഷ്ടം എന്ന് ഞങ്ങൾ പരിഗണിക്കും അതിനാൽ ട്രാൻസ്ഫോർമർ ലോഡ് കറന്റ് വഹിക്കുമ്പോൾ വിൻഡിംഗ് റെസിസ്റ്റൻസുകളിൽ ഈ നഷ്ടം സംഭവിക്കുന്നു അതിനാൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ട്രാൻസ്ഫോർമർ ലോഡ് വ്യത്യാസപ്പെടുന്നുവെങ്കിൽ ട്രാൻസ്ഫോർമർ കറന്റ് I വ്യത്യാസപ്പെടുന്നു അതിനാൽ ഈ ചെമ്പ് നഷ്ടം ഒരു വേരിയബിൾ നഷ്ടമാണ് അതിനാൽ ഈ ചെമ്പ് നഷ്ടം ഒരു വേരിയബിൾ നഷ്ടമാണ് എല്ലാ സമയ ലോഡും സ്ഥിരമല്ല അതിനാൽ വൈദ്യുതധാര സ്ഥിരമല്ലെങ്കിൽ ഈ ചെമ്പ് നഷ്ടം ഒരു പരിവർത്തിയായ നഷ്ടമാണ് അതിനാൽ ട്രാൻസ്ഫോർമർ ലോഡ് കറന്റ് വഹിക്കുമ്പോൾ പൂർണ്ണ ലോഡിന്റെ അനുപാതമായി കാണപ്പെട്ട ലോഡിംഗിന്റെ E2 നു ആനുപാതികമായി ചെമ്പ് നഷ്ടം വ്യത്യാസപ്പെടുന്നു അതിനാൽ സാധാരണയായി I വ്യത്യാസപ്പെടുകയാണെങ്കിൽ ലോഡിംഗും ലോഡും വ്യത്യാസപ്പെടുന്നു അതിനാൽ ചിലപ്പോൾ പൂർണ്ണ ലോഡിന്റെ അനുപാതം a 2 of 2 ആയി കാണാം മറ്റ് തരത്തിലുള്ള ലോഡ് ഒന്നും ഇപ്പോൾ നമ്മുടെ പഠനത്തിൽ പരിഗണിക്കുന്നില്ല എന്നാൽ നമ്മുടെ പൊതുവായ അറിവിനായി ലോഡ് അല്ലെങ്കിൽ സ്ട്രെയ് loadstray നഷ്ടംഎന്താണെന്നു നമുക്ക് നോക്കാം പ്രധാനമായും ചോർച്ചയുള്ള പ്രവർത്തനതലത്തിൽ നിന്നാണ് ഇത് ടാങ്ക്മതിലിലും വിദ്യുച്ഛക്തിവാഹകങ്ങളിലും എഡ്ഡി വൈദ്യുത പ്രവാഹങ്ങൾ സൃഷ്ടിക്കുന്നത് ഇനി മറ്റൊന്ന് ഡൈ ഇലക്ട്രിക് നഷ്ടം എന്ന് വിളിക്കുന്നു ഇത് പ്രധാനമായും കാണപ്പെടുന്നത് വിദ്യുത്രോധന വസ്തുക്കളിലാണ് പ്രത്യേകിച്ച് എണ്ണ ഖര വിദ്യുത്രോധന വസ്തുക്കളിൽ അതിനാൽ പ്രധാനമായി നമ്മൾ കണക്കാക്കുന്ന നഷ്ടങ്ങൾ കോർ നഷ്ടം അല്ലെങ്കിൽ ഇരുമ്പ് നഷ്ടം അതായത് Wi ഇത് ഒരു സ്ഥിരമായ നഷ്ടമാണെന്ന് നമുക്കു കരുതാം കാരണം വൈദ്യുതിയുടെ ചാലകശക്തിയും തരംഗദൈർഘ്യവും സ്ഥായിയായി തന്നെ തുടരുമെന്ന് നമുക്കു അനുമാനിക്കാം മറ്റൊന്ന് ഒരു ചെമ്പ് നഷ്ടമാണ് ഇത് ഒരു അനവസ്ഥിതമായ നഷ്ടമാണ് കാരണം ലോഡ് വ്യത്യാസപ്പെടുന്നു എങ്കിൽ വൈദ്യുതി പ്രവാഹവും വ്യത്യാസപ്പെടുന്നു അതിനാൽ ഇത് ഒരു അനവസ്ഥിതമായ നഷ്ടമാണ് അതിനാൽ 2 വിൻഡിംഗ് ട്രാൻസ്ഫോർമറിലെ ചെമ്പ് നഷ്ടം I2 2 R1 I2 2 R2 ആണ് അതായത് ട്രാൻസ്ഫോർമറിന് തുല്യമായ സർക്യൂട്ട് നമ്മൾ കണ്ടു ഇനി ഞാൻ 1 സർക്യൂട്ടിലേക്ക് പോകുന്നു ഞാൻ 1 സർക്യൂട്ടിലേക്ക് മടങ്ങുകയാണ് ട്രാൻസ്ഫോർമറിലെ ചെമ്പ് നഷ്ടം അത് വരയ്ക്കുന്നതിന് പകരം ഗ്രഹിക്കുക പ്രാഥമികവും ദ്വിതീയവും ഇവിടെ കാണാം അതിനാൽ യഥാർത്ഥത്തിൽ ഇത് ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു ഞാൻ അതിനെ നന്നായി വരയ്ക്കും കാത്തിരിക്കുക എനിക്ക് ഇത് വീണ്ടും തിരയേണ്ടിവരും അതിനാൽ സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് കോർ നഷ്ട ഘടകമാണ് ഇത് കാന്തിക നഷ്ട ഘടകമാണ് ഇത് പ്രാഥമിക വശമാണ് ഈ വശത്ത് R1 എന്ന് വിളിക്കുന്നതും എക്സ് 1 ഉള്ളതും ഇത് പ്രാഥമിക വശത്തിന്റെ വിൻഡിംഗും ആണ് ഈ ദ്വിതീയ വശത്തിന്റെ വിൻഡിംഗ് ഈ ഇടം ഉൾക്കൊള്ളാൻ എങ്ങനെ കഴിയുമെന്ന് നോക്കുക ഇത് വ്യക്തമായി മനസ്സിലാക്കുക ഇത് R ആണ് സ്ഥലപരിമിതി കാരണം ഇത് ഒരു പ്രാഥമിക വശവുമാണ് അതിനാൽ ഇത് വൈദ്യുതി പ്രവാഹം I1 എന്ന് എടുക്കുന്നു ഇത് വൈദ്യുതി പ്രവാഹം I 0 എന്ന് കരുതാം ഈ വശത്തെ വൈദ്യുതി പ്രവാഹം നമ്മൾ I2 എടുക്കുന്നുവെന്നും ഇത് പ്രാഥമിക വിൻഡിംഗ് ആണെന്നും ഇത് R1 ആണെന്നും ദ്വിതീയ വിൻഡിംഗ് ഇതാണ് എന്നും പറയുന്നു ഈ വശം R2 ആണ് ഇത് X2 ആണ് ഇവിടെ ലോഡ് ഉണ്ട് ഇതാണ് R2 ഇതിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര I2 ആണ് അതിനാൽ ഇവിടെ നഷ്ടവും ആകെ നഷ്ടവും അങ്ങനെ മാഗ്നിറ്റ്യൂഡ് I2 2 R1 വ്യാപ്തി ഇവിടെ I2 വ്യാപ്തി R2 ഇത് മൊത്തം ചെമ്പ് നഷ്ടം യഥാർത്ഥ പവർ നഷ്ടമാണ് അതിനാൽ ഇതാണ് I2 2 R1 I2 2 R2 മൊത്തം ചെമ്പ് നഷ്ടം അതിനാൽ ഈ സാഹചര്യത്തിൽ I2 2 എടുക്കുക അതിനാൽ ഇത് R2 I2 I2 2 R1 ആയി മാറും അതേപോലെ I2 I2N2N1 ആണെന്ന് നമുക്കറിയാം അത് ഇവിടെ പകരം വയ്ക്കുക അത് R2 ആയിരിക്കും കൂടാതെ ഈ ട്രാൻസ്ഫോർമർലുടനീളം K N1 upon N2 ആണെന്ന് നമുക്കറിയാം അങ്ങനെ ആണെങ്കിൽ K N N1 upon N2 ആണെങ്കിൽ അത് R2 R1 K 2 I2 ആയിരിക്കും അതിനാൽ ചെമ്പ് നഷ്ടം Re2 I2 2 ആയിരിക്കും ഈ Re2 യഥാർത്ഥത്തിൽ തുല്യമായ പ്രതിരോധമാണ് അത് മനസിലാക്കാൻ ദ്വിതീയ വശം പരിശോധിക്കുക പ്രാഥമിക ഭാഗത്ത് ഇതേ കാര്യം എടുക്കുകയാണെങ്കിൽ അത് R1 K 2 R2 ആയിരിക്കും പക്ഷേ ദ്വിതീയ വശത്തെ പരിശോധിക്കുമ്പോൾ ഇതാണ് ചെമ്പ് നഷ്ടം ഇത് Re2 I2 2 ആണ് അത് തന്നെ Re2ആണ് അതിനാൽ ഇപ്പോൾ നമുക്ക് x I2 I എന്ന് പറയാം കാരണം വീണ്ടും ലോഡുചെയ്യുന്നത് ദ്വിതീയ വശത്താണ് അതിനാൽ I2I2 fl എന്ന് പറയുക I2 fl എന്നത് പൂർണ്ണ ലോഡ് വൈദ്യുതി ആണ് ദ്വിതീയ ഭാഗത്തെ പൂർണ്ണ ലോഡ് വൈദ്യുതി നിർണ്ണയിക്കാൻ നമുക് ഇവിടെ ഒരു ഉദാഹരണം എടുക്കാം അതായത് 500 KVA ട്രാൻസ്ഫോർമർ 1000 ആമ്പിയർ ലഭിച്ചു ഇപ്പോൾ നമ്മൾ ഒരു പ്രശ്നം ചെയ്തു അതിനാൽ ഗണിതശാസ്ത്രപരമായി x I2 I2 I2 fl എന്ന് എഴുതുകയാണെങ്കിൽ I2 fl എന്നത് പൂർണ്ണ ലോഡ് നെ സൂചിപ്പിക്കുന്നു അതിനാൽ ദ്വിതീയ ഭാഗത്തുള്ള പൂർണ്ണ ലോഡ് വൈദ്യുതി ആണ് I2 fl അതിനാൽ I2 അതിനാൽ ഈ സമവാക്യം I2 x I2 fl ആയി രൂപപ്പെടുത്തുക ഇപ്പോൾ ഒന്നും രണ്ടും സമവാക്യത്തിൽ നിന്നും ചെമ്പ് നഷ്ടം Re2 ലഭിക്കും എന്ത് കൊണ്ടെന്നാൽ Re2 I2 2 ആണ് അതിനാൽ ഇവിടെ നമ്മൾ I2 എന്ന് എഴുതുന്നു Re2 x I2 fl 2 എന്നത് നമ്മൾ കണ്ടുകഴിഞ്ഞു അതിനാൽ ചെമ്പ് നഷ്ടം X2 I2 2 fl Re2 ആയിരിക്കും ഇപ്പോൾ നമുക്ക് ആ ചെമ്പ് നഷ്ടം X2 Wc എന്ന് എഴുതാം Wc I2 2 fl Re2 ഇതിനെ പൂർണ്ണ ലോഡ് ചെമ്പ് നഷ്ടം എന്ന് വിളിക്കുന്നു അതിനാൽ പൂർണ്ണ ലോഡ് ചെമ്പ് നഷ്ടമാണ് Wc അതിനാൽ I2 2 fl Re2 WC എന്ന് വിളിക്കുന്നു അതിനെ പൂർണ്ണ ലോഡ് ചെമ്പ് നഷ്ടം എന്ന് വിളിക്കുന്നു അതിനാൽ ചെമ്പ് നഷ്ടം X എന്ന് വിളിക്കുമ്പോൾ ചെമ്പ് നഷ്ടം X2 Wc ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ Wc ഇത്രയും പൂർണ്ണ ലോഡ് ചെമ്പ് നഷ്ടം എന്ന് എഴുതുന്നത് ട്രാൻസ്ഫോർമറിന്റെ ഫലം സാധാരണയായി V2 I2 cos ∅2 ആണ് ഇപ്പോൾ V 2 ഉണ്ട് I2 x I2 പൂർണ്ണ ലോഡ് അത് I2 x I2 fl ന്റെ മൂല്യം മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ x V2 I2 fl cos theta 2 ∅2 അത് ഈ സാഹചര്യത്തിൽ I2 x I2 fl അതിനാൽ x P fl ആയിരിക്കും ഫലം അതിനാൽ P fl യഥാർത്ഥത്തിൽ പൂർണ്ണ ലോഡ് ഫലം ആയിരിക്കും ഉദാഹരണമായി 500 KVA പവർ ഫാക്ടറും നൽകിയിട്ടുണ്ടെങ്കിൽ P fl നമ്മൾക്കു കണ്ടെത്തേണ്ടതുണ്ട് അടിസ്ഥാനപരമായി P fl V2 I2 fl cos ∅2 ആയിരിക്കും അതിനാൽ ഇത് പൂർണ്ണ ലോഡ് ഉത്പാദനം ആണ് 500 KVA ട്രാൻസ്ഫോർമർ KVA വാട്ടിനായി ഇപ്പോൾ കറൻറ് ലഭിച്ചു അതിനാലാണ് വാട്ട് കണക്കിലെടുക്കുമ്പോൾ വൈദ്യുതി ആവശ്യമെങ്കിൽ അതിനാൽ V2 I2 fl cos ∅2 അതാണ് പൂർണ്ണ ലോഡ് output X P fl x 1 ആണെങ്കിൽ ഫുൾ ലോഡ് ഉത്പാദനം അല്ലെങ്കിൽ x വ്യത്യാസപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ഉത്പാദനം വ്യത്യാസപ്പെടും അത് ട്രാൻസ്ഫോർമറിൽ സംഭവിക്കുന്നു എന്ത് കൊണ്ടെന്നാൽ ദിവസം മുഴുവൻ ലോഡ് വ്യത്യാസപ്പെടുന്നു അതിനാൽ ഇൻപുട്ട് output നഷ്ടം അതിനാൽ ഇത് output X P fl നഷ്ടങ്ങളാണ് അതിനാൽ ഇൻപുട്ട് ഫലം കോർ നഷ്ടം ചെമ്പ് നഷ്ടം എന്നിവ ഞങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ ഇൻപുട്ട് എന്ന് പറയുന്നത് x P fl output Wi പ്രധാന നഷ്ടം അല്ലെങ്കിൽ ഇരുമ്പ് നഷ്ടം ഈ Wi അതായത് ഇരുമ്പ് നഷ്ടം അല്ലെങ്കിൽ കോർ നഷ്ടം X2 Wc അതിനാൽ ഇത് സമവാക്യം 5 ആണ് അതിനാൽ കാര്യക്ഷമത output ഇൻപുട്ട് ആണ് അതിനാൽ കാര്യക്ഷമതയെ x P fl എന്ന് എഴുതാം ഇത് output ഇൻപുട്ട് ഇപ്പോൾ പരമാവധി കാര്യക്ഷമതയ്ക്കായി d zeta dx 0 എടുക്കും D zeta dx 0 എന്ന് പറഞ്ഞാൽ ഇരുമ്പ് നഷ്ടം ചെമ്പ് നഷ്ടം കാണും അതിനാൽ ഈ സംഖ്യ പരിഹരിക്കുന്നതിനായി ഈ അവസ്ഥയിൽ ഉള്ള പരമാവധി കാര്യക്ഷമത മനസ്സിൽ വെക്കുക പരമാവധി കാര്യക്ഷമതയ്ക്കായി ഇരുമ്പ് നഷ്ടം ചെമ്പ് നഷ്ടം പക്ഷേ ഈ വ്യുത്പന്നം ദയവായി സ്വയം ചെയ്യുക ഈ ഉത്തരം ലഭിക്കും പരമാവധി കാര്യക്ഷമതയ്ക്കായി കോർ നഷ്ടം ചെമ്പ് നഷ്ടം ഇപ്പോൾ nu max Wi X2 Wc അതായത് ഈ ആവിഷ്കരണം ഇടുകയാണെങ്കിൽ X2 Wc Wi X2 Wc Wi അപ്പോൾ അത് x P fl x P fl Wi അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് തുടർന്ന് പരമാവധി കാര്യക്ഷമത x P fl x P fl 2 Wi ഒരു ട്രാൻസ്ഫോർമറിന്റെ പരമാവധി കാര്യക്ഷമതയ്ക്കായി ഇതെല്ലാം അറിയേണ്ടതുണ്ട് ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമറിന്റെ ദിവസം മുഴുവൻ ഉണ്ടാകുന്ന കാര്യക്ഷമത കണ്ടുപിടിക്കുന്നതിനു സൂത്രവാക്യം ഉണ്ട് അതിനായി നമുക് ഒരു സംഖ്യ എടുക്കാം അപ്പോൾ അത് മനസിലാകും ദിവസം മുഴുവൻ കാര്യക്ഷമത 24 മണിക്കൂറിനുള്ളിൽ കിലോവാട്ട് മണിക്കൂറിൽ ട്രാൻസ്ഫോർമറിന്റെ output ഇൻപുട്ട് 24 മണിക്കൂറിനുള്ളിൽ കിലോവാട്ട് മണിക്കൂറിൽ ട്രാൻസ്ഫോർമറിലേക്ക് അതിനാൽ ഇരുമ്പ് നഷ്ടം സ്ഥിരവും എല്ലാ 24 മണിക്കൂറിലും നിലവിലുള്ളതും ആയിരിക്കും അതിനാൽ ഇരുമ്പിന്റെ നഷ്ടം എന്തായാലും അത് സ്ഥിരവും 24 മണിക്കൂറും തുടർച്ച ആയുള്ളതും ആയിരിക്കും ഇരുമ്പിന്റെ നഷ്ടം എന്തുതന്നെയായാലും 24 കൊണ്ട് ഗുണിക്കുക ഈ കിലോവാട്ട് മണിക്കൂറിൽ കണക്കിലെടുക്കുമ്പോൾ ഇരുമ്പിന്റെ നഷ്ടം നമുക്ക് ലഭിക്കും ഓരോ മണിക്കൂറിലും വൈദ്യുതിയുടെ ലോഡിന്റെ വർഗം വ്യത്യാസപ്പെടുന്നതിന് അനുസൃതമായി ചെമ്പ് നഷ്ടം വ്യത്യാസപ്പെടുന്നു അതിനാൽ ചെമ്പ് നഷ്ടം വേരിയബിൾ എന്നാൽ ഇരുമ്പ് നഷ്ടം സ്ഥിരമായി തുടരും ഒരു ഉദാഹരണം എടുക്കുമ്പോൾ നമ്മൾ കാണും ഇപ്പോൾ മറ്റൊരു കാര്യം വോൾട്ടേജ് നിയന്ത്രണമാണ് ഇത് വളരെ ലളിതമായ കാര്യമാണ് വിൻഡിംഗ് റെസിസ്റ്റൻസിനും ചോർച്ച പ്രതിപ്രവർത്തനത്തിനും കുറുകെയുള്ള വോൾട്ടേജ് ഡ്രോപ്പിലെ മാറ്റം കാരണം ലോഡിലെ മാറ്റത്തിനൊപ്പം ദ്വിതീയ ടെർമിനൽ വോൾട്ടേജ് മാറുന്നു കാരണം ലോഡ് മാറുകയാണെങ്കിൽ സ്വാഭാവികമായും ദ്വിതീയ വശത്തെ വോൾട്ടേജ് ഡ്രോപ്പ് അങ്ങനെ മാറും അതിനാൽ ട്രാൻസ്ഫോർമറിന്റെ വോൾട്ടേജ് റെഗുലേഷൻ നിർവചിച്ചിരിക്കുന്നത് സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജിലെ മൊത്തം മാറ്റം ലോഡിൽ നിന്ന് പൂർണ്ണ ലോഡിലേക്ക് അതിനാൽ ഒരു ലോഡിൽ നിന്നും പൂർണ്ണ ലോഡിലേക്ക് പ്രായം റേറ്റുചെയ്തതിനാൽ പ്രകടിപ്പിക്കുന്നു അതിനർത്ഥം വോൾട്ടേജ് റെഗുലേഷൻ ഇതാണ് V2 0 ലോ ലോഡ് ഇത് V2 fl ആണ് പൂർണ്ണ ലോഡ് വിഭജനം V2 fl 100 ഇതാണ് വോൾട്ടേജ് റെഗുലേഷൻ അതിനാൽ ദ്വിതീയ ടെർമിനൽ വോൾട്ടേജിന്റെ മൊത്തം മാറ്റമാണ് ഒരു ലോഡിൽ നിന്നും പൂർണ്ണ ലോഡിലേക്ക് പ്രകടിപ്പിക്കുന്നത് അതിന്റെ ഒരു പ്രായം വോൾട്ടേജായി റേറ്റുചെയ്യുന്നു അതിനാൽ ഇത് വോൾട്ടേജ് നിയന്ത്രണമാണ് ഇപ്പോൾ V2 0 എന്താണ് V2 fl അതിനാൽ ലോഡ് വലിച്ചെറിയുമ്പോൾ ദ്വിതീയ വോൾട്ടേജായ V2 a V2 0 അതായത് V2 0 E2 അതായത് ലോഡ് ഇല്ലാത്തപ്പോൾ ലോഡ് അവസ്ഥയില്ലെന്നും V 2 fl പൂർണ്ണ ലോഡ് സെക്കൻഡറി വോൾട്ടേജാണെന്നും പറയുമ്പോൾ റേറ്റുചെയ്ത ദ്വിതീയ വോൾട്ടേജുമായി ഇത് ക്രമീകരിക്കപ്പെടുമെന്ന് കരുതപ്പെടുന്നു അതിനാൽ ഒരു ട്രാൻസ്ഫോർമറിന്റെ മെറിറ്റിന്റെ ഒരു കണക്കാണ് വോൾട്ടേജ് റെഗുലേഷൻ ഒരു അനുയോജ്യമായ ട്രാൻസ്ഫോർമർ വോൾട്ടേജ് റെഗുലേഷൻ 0 ആണ് കാരണം അത്തരം സന്ദർഭങ്ങളിൽ V2 0 V2 fl മൂല്യം സമാനമാണ് കാരണം അനുയോജ്യമായ ട്രാൻസ്ഫോർമറിന് അതിനാൽ ഒരു അനുയോജ്യമായ ട്രാൻസ്ഫോർമറിന് നിയന്ത്രണം 0 ആണ് അതിനാൽ ട്രാൻസ്ഫോർമറിന്റെ പ്രവർത്തനമാണ് വോൾട്ടേജ് നിയന്ത്രണം ചെറുത് അതിനാൽ ലോഡിന്റെ ടെർമിനലിലുടനീളം വോൾട്ടേജ് മികച്ചതായിരിക്കും ഇപ്പോൾ ഇതുപോലെയുള്ള സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് E2 ഇത് അനുയോജ്യമായ ട്രാൻസ്ഫോർമറാണ് ഇവിടെ വിൻഡിംഗ് ഒഴികെ മറ്റൊന്നും ഇല്ല അതിനാൽ ഇത് E2 V2 0 ആണ് ഇത് Re2 XE2 ആണ് ഇതിനെ ദ്വിതീയ പ്രതിരോധത്തെയും പ്രതിപ്രവർത്തനത്തെയും വിളിക്കുന്നത് ഇതാണ് നിലവിലെ I2 V2 ലോഡിലുടനീളം വോൾട്ടേജ് അതിനാൽ തുല്യമായ സർക്യൂട്ട് എടുക്കുക ഈ 1 ലേക്ക് റഫറർ ചെയ്യുക തുടർന്ന് Re2 യഥാർത്ഥത്തിൽ R2 R1 K 2 ആയിരിക്കും അതിനാൽ R2 R1 k 2 ഉം XE2 ഉം X2 X 1 K 2 ആണ് അതിനാൽ ഇതിനെ ദ്വിതീയമായി പരാമർശിക്കുന്ന ഏകദേശ തുല്യ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു ഷണ്ട് ശാഖകൾ നിസ്സാരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഷണ്ട് ബ്രാഞ്ചിനെ ഞങ്ങൾ ഏകദേശമായി കണക്കാക്കുന്നു എല്ലാം ഏകദേശമാണ് അവഗണിക്കപ്പെടുന്നു അതിനാൽ Re2 XE2 എക്സ്പ്രഷന് ഇതെല്ലാം അറിയാം ഇതിനെയാണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ മറ്റൊന്ന് വ്യത്യസ്ത പവർ ഫാക്ടറിനായുള്ള വോൾട്ടേജ് റെഗുലേഷൻ എക്സ്പ്രഷനാണ് കേസ് 1 ഞങ്ങൾ യൂണിറ്റി പവർ ഫാക്ടർ ലോഡ് എന്ന് കണക്കാക്കി ലോഡ് യൂണിറ്റി പവർ ഫാക്ടർ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായും പ്രതിരോധിക്കും ഇത് പൂർണ്ണമായും പ്രതിരോധശേഷിയുള്ളതാണെങ്കിൽ നിലവിലെ I2 V2 എന്നിവ രണ്ടും ഘട്ടത്തിലാണ് രണ്ടും ഈ ഘട്ടത്തിലാണെങ്കിൽ ഇവ രണ്ടും ആണെങ്കിൽ ഇതാണ് വോൾട്ടേജ് വി 2 ഇതും റെസിസ്റ്റൻസ് I2 Re2 ൽ ഉടനീളം വോൾട്ടേജ് ഡ്രോപ്പ് അതിനാൽ ഇത് ഐക്യ പവർ ഫാക്ടർ ലോഡാണ് ഇത് I2 ഉം V2 ഉം രണ്ടും ഘട്ടത്തിലായിരിക്കും ഇത് മറ്റൊരു കാര്യം I2 Re2 ഡ്രോപ്പും ചേർക്കുന്നു കാരണം E2 നോക്കിയാൽ ഇത് E2 V2 I2 Re2 j I2 XE2 അതിനാൽ j I2 XE2 എന്നതിനർത്ഥം ഇത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് 90 o ആയിരിക്കും ഇത് വോൾട്ടേജ് E2 ആണ് ഇത് is ആണ് അതിനാൽ അതിനർത്ഥം E2 ഇതിനെ E2 എന്ന് വിളിക്കുന്നു E2 2 under ന് കീഴിലുള്ള V2 I2 Re2 2 I2 XE2 2 ആയിരിക്കും അതിനാൽ അതുകൊണ്ടാണ് Re2 2 V2 I2 Re2 2 I2 XE2 2 അതിനർത്ഥം ഇതിന്റെ E2 2 ഇപ്പോൾ E2 നായി ഒരു ഏകദേശരൂപം എഴുതാൻ കഴിയുന്നതിനാൽ E2 ഇപ്പോൾ മറ്റൊരു കാര്യത്തിന് E2 cos V2 I2 Re2 എഴുതാൻ കഴിയും മാത്രമല്ല നമുക്ക് E2 cos ∂എന്ന് എഴുതാനും കഴിയും അതിനാൽത്തന്നെ ഞങ്ങൾ E2 cos ∂ V2 I2 Re2 എഴുതി ഇപ്പോൾ ∂ ഏകദേശം 0 എന്ന് പറഞ്ഞാൽ കോസ് 1 1 ആണെന്ന് അതിനാൽ ഏകദേശം E2 ഏകദേശം V2 I2 Re2 അല്ലെങ്കിൽ നമുക്ക് E2 V2 V2 I2 Re2 V2 എഴുതാം അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കണ്ട E2 V2 0 അതായത് V2 0 V2 V2 I2 Re2 V2 അതിനാൽ റെഗുലേഷൻ എന്ന് വിളിക്കുന്നതിന്റെ പ്രകടനമാണിത് അതുപോലെ പവർ ഫാക്ടർ ലോഡ് ലാൻഡിംഗിനായി പവർ ഫാക്ടർ ലോഡ് കുറയുന്നതിന് ലാൻഡിംഗിനുള്ള ഐക്യ പവർ ഫാക്ടറിനാണ് ഇത് അതിനർത്ഥം നിലവിലെ ലാൻഡിംഗ് പവർ ഫാക്ടർ ലോഡ് എന്നാൽ കറന്റ് ലാൻഡിംഗ് എന്നാണ് അതിനാൽ ഇത് നിലവിലെ ദ്വിതീയ കറന്റ് I2 ആണ് ഇത് V2 ഒരു ആംഗിൾ ∅2 ൽ നിന്ന് പിന്നിലാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഇതിനെ വിളിക്കുന്നത് നിലവിലെ കാലതാമസമാണ് അതിനാൽ ഇതിനൊപ്പം ഡ്രോപ്പ് I2 Re2 ആയിരിക്കും തുടർന്ന് I2 XE2 ഇത് 1 ആയിരിക്കും ഈ ആംഗിൾ 90 o ആണ് ഈ ആംഗിൾ 90 o ആണെന്നും ഇത് Re2 ആണെന്നും ഇത് Re2 ഉം V2 നും E2 നും ഇടയിലുള്ള കോണും ∂ ആയിരിക്കും ഇപ്പോൾ തിരശ്ചീനവും ലംബവുമായ എല്ലാ പ്രൊജക്ഷനും നിർമ്മിക്കുക അതിനാൽ ഞാൻ അടയാളപ്പെടുത്താത്ത കഴ്സറിലേക്ക് ഈ ഭാഗം നോക്കുക ഇവിടത്തെ കഴ്സറിലേക്ക് മഷി നോക്കുക I2 Re2 cos ∅2 ആയിരിക്കും കാരണം ഇത് ∅2 ആണ് ഈ ആംഗിൾ ∅2 അതിനാൽ ലളിതമായ ജ്യാമിതിയിൽ നിന്ന് ഇത് കോണും ∅2 ആണ് ഈ ആംഗിൾ കഴ്സറിനെ ആയിരിക്കും ഇതിന് ഇത് ചെയ്യാൻ കഴിയും ലളിതമായ അതിനാൽ ഈ ഭാഗം I2 Re2 cos ∅2 ആണ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് I2 XE2 sin ∅2 ആണ് ഞാൻ അടയാളപ്പെടുത്തിയതെല്ലാം നോക്കുക ഈ ലംബ വരി മുഴുവൻ ഈ ആംഗിൾ is ആണ് അതിനാൽ ഇത് ∅2 ആയിരിക്കും അത് I2 XE2 cos ∅2 ആയിരിക്കും ഈ ഭാഗം ലംബമായി ഈ ഭാഗംI2 Re2 sin ∅2 ആണെന്ന് കണ്ടാൽ അതിനാൽ കോൾ ലളിതമായ ജ്യാമിതിയാണ് ഇത് എല്ലാം നിർമ്മിക്കാൻ കഴിയും അതിനാൽ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല കാരണം ഡിംഗിൾ ഫേസ് എസി സർക്യൂട്ട് ഫാസർ ഡയഗ്രം എല്ലാം കണ്ടിട്ടുണ്ട് ഇതുപയോഗിച്ച് ഇത് a അതിനാൽ ഈ ത്രികോണം എന്ത് വിളിച്ചാൽ ഈ ത്രികോണം എഴുതുന്ന ഒരു കോളാണ് പരിഗണിക്കുന്നതെങ്കിൽ ഈ ഭാഗവും പരിഗണിച്ചാൽ ഈ ഭാഗവും എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിനാൽ E2 2 എന്നത് V2 I2 Re2 cos ∅2 I2 XE2 sin ∅2 wholE2 I2 XE2 cos ∅2 I2 Re2 sin ∅2 2 അതിനാൽ ഇത് എഴുതിയതായി നോക്കിയാൽ ഇതാണ് E2 2 ഇത് അങ്ങനെ ഏത് E2 ൽ നിന്ന് ലഭിക്കും ഇപ്പോൾ ഒരു ഏകദേശമെന്ന നിലയിൽ E2 cos ∂ E2 E2 cos write എഴുതാനും കഴിയും അതിനർത്ഥം ഞാൻ ഇത് അർത്ഥമാക്കുന്നത് എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് E2 E2 cos ∂ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗം V2 I2 Re2 cos ∅2 I2 XE2 sin ∅2 അതിനാൽ അതാണ് ഞങ്ങൾ ഇവിടെ എഴുതിയത് ഇതാണ് സമവാക്യം ഇപ്പോൾ ∂ എന്നത് 0 ന് തുല്യമാണെന്ന് വളരെ ചെറുതാണെന്ന് കരുതുക അതിനാൽ cos ∂ 1 അതിനാൽ ഈ പദം E2 V2 അല്ലെങ്കിൽ E2 V2 V2 എഴുതാൻ കഴിയും അതിനാൽ അത് V2 0 V2 V2 I2 Re2 cos ∅2 XE2 sin ∅2 V2 ആയിരിക്കും അടിസ്ഥാന ഇംപെഡൻസ് ഞങ്ങൾ ഇപ്പോൾ കണ്ടത് അടിസ്ഥാന ഇംപെഡൻസ് ദ്വിതീയ വശം ഇത് ദ്വിതീയ വശത്ത് V2 I2 ആണ് അതിനാൽ Z B അടിസ്ഥാന ഇംപെഡൻസിനെ സൂചിപ്പിക്കുന്നു 2 ദ്വിതീയ വശത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ Z B 2 V2I2 Re2 cos ∅2 XE2 sin ∅2 എന്ന ഈ സമവാക്യത്തെ V2 I2 കൊണ്ട് വിഭജിക്കുക ആണെങ്കിൽ നമുക്ക് V2 I2 V2I2 Z B 2 എന്ന് എഴുതാം അതാണ് Z B 2 അതിനാൽ നമുക്ക് V2 0 V2V2 Re2Z B 2 cos ∅2 XE2Z B 2 sin ∅2 എന്ന് എഴുതാം അതായത് ഇത് ഒരു യൂണിറ്റിന് Re2 ആണെന്ന് നിർവചിക്കാം അതിനർത്ഥം അളവില്ലാത്ത അളവ് ഈ p u എന്നാൽ ഒരു യൂണിറ്റിന് ഒരു യൂണിറ്റ് എന്നാണ് അതിനാൽ യൂണിറ്റിന് Re2 Z B 2 XE2 എന്നിവ യൂണിറ്റിന് XE2 XE2 Z B 2 ആണ് ഞാൻ ഇവിടെ എഴുതിയതുപോലെ ഇത് ഒരു യൂണിറ്റിന് അതിനാൽ V2 0 V2V2 കണക്കിലെടുത്ത് വോൾട്ടേജ് നിയന്ത്രണം യൂണിറ്റിന് Re2 cos ∅2 XE2 per unit sin ∅2 വളരെ ലളിതമാണ് ഇത് കുറച്ച് പരിശീലനം ആവശ്യമാണ്